ആശംസകൾ ഒപ്പം ടെയിൽ മൊഡ്യൂൾ 3 യൂണിറ്റ് 3ഇലേക്ക് സ്വാഗതം മറ്റു മൊഡ്യൂളുകളിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ ആണ് ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത് ഈ യൂണിറ്റ് ബ്രെയിൻസ് എങ്ങനെ പഠിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് 3 യൂണിറ്റുകളിൽ വിവരിക്കുന്നു ഈ യൂണിറ്റുകൾ തലച്ചോറിന്റെ ശരീരഘടനയുടെ ഒരു ചെറിയ ഭാഗം അവതരിപ്പിക്കുന്നു കൂടാതെ തലച്ചോറിന്റെ ചില പ്രത്യേകതകൾ തിരിച്ചറിയുന്നു അവ നമ്മുടെ അധ്യാപനത്തെയും പഠനത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ നോക്കാം അവസാന യൂണിറ്റിൽ ഇൻസ്ട്രക്ഷണൽ സാഹചര്യത്തെക്കുറിച്ചും ഇൻസ്ട്രക്ഷണൽ സാഹചര്യങ്ങളുടെ മൂല്യങ്ങളും വ്യവസ്ഥകളും ഇൻസ്ട്രക്ഷണൽ സാഹചര്യത്തെയും പഠനത്തെയും വളരെയധികം സ്വാധീനിക്കുന്നതെങ്ങനെയെന്നും നമ്മൾ മനസ്സിലാക്കി പ്രായോഗികമായി ഓരോ കോളേജിനും അതിന്റേതായ പ്രത്യേക സഹചര്യങ്ങളുണ്ട് ഒരു പരിധിവരെ ആ കോളേജിലെത്തുന്ന ഏതൊരു അദ്ധ്യാപകനും ആ സന്ദർഭത്തിന്റെ സാഹചര്യവുമായി തന്റെ ഇൻസ്ട്രക്ഷൻസ് ക്രമീകരിക്കേണ്ടതുണ്ട് തലച്ചോർ എങ്ങനെ പഠിക്കും എന്നതിനെക്കുറിച്ച് ഒരു അധ്യാപകൻ എന്തുകൊണ്ട് അറിയണം എന്ന് മനസിലാക്കാൻ ഈ യൂണിറ്റിൽ നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കും തലച്ചോറിന്റെ ഘടന മനസ്സിലാക്കാൻ ശ്രമിക്കാം എല്ലാത്തിനുമുപരി അധ്യാപകൻ എല്ലാ ദിവസവും എന്താണ് ചെയ്യുന്നത് എല്ലാ ദിവസവും അദ്ദേഹം തന്റെ വിദ്യാർത്ഥികളുടെ തലച്ചോർ മാറ്റാൻ ശ്രമിക്കുന്നു കാരണം അവിടെയാണ് പഠനം നടക്കുന്നത് എന്റെ വിദ്യാർത്ഥികളുടെ തലച്ചോർ തുടർച്ചയായി മാറ്റാൻ ഞാൻ ശ്രമിക്കുമ്പോൾ പഠിപ്പിക്കുന്നത് തലച്ചോറിനെ മാറ്റുന്ന കലയാണ് അങ്ങനെയാണ് ഒരാൾക്ക് അധ്യാപനത്തെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് തലച്ചോറിന്റെ പ്രവർത്തനവുമായി അധ്യാപകന് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തം കാരണം പഠിക്കുന്നത് തലച്ചോറാണ് തലച്ചോർ എങ്ങനെ പഠിക്കുന്നു എന്നതിനെക്കുറിച്ച് അധ്യാപകർക്ക് എത്ര കൂടുതൽ അറിയമോഅത്രയും നന്നായി തലച്ചോറിനെ മാറ്റുന്നതിനുള്ള അവരുടെ ജോലി നിർവഹിക്കാൻ അവർക്ക് കഴിയും പഠനത്തിന്റെ ജീവശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പഠനത്തിന്റെ ബയോളജി പറയാൻ കഴിയും കാരണം നിങ്ങൾ പഠിക്കുമ്പോഴെല്ലാം തലച്ചോറിൽ ജൈവശാസ്ത്രപരമായി എന്തെങ്കിലും സംഭവിക്കുന്നു ഒരു വ്യക്തിയുടെ പരിസ്ഥിതി തലച്ചോറിന്റെ വളർച്ചയെയും വികാസത്തെയും എത്രമാത്രം ബാധിക്കും അതിനെക്കുറിച്ചുള്ള ധാരണ എല്ലാ അധ്യാപകരെയും സഹായിക്കും ഇത് എത്ര കൂടുതൽ അധ്യാപകർക്ക് പരിചിതമാണോ അവർക്ക് അവരുടെ ജോലി നന്നായി നിർവഹിക്കാൻ കഴിയും കഴിഞ്ഞ നിരവധി ദശകങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ മനസിലാക്കിയിട്ടുണ്ട് കാരണം ആയിരക്കണക്കിന് ഗവേഷകർ തലച്ചോറിന്റെ വിവിധ കാര്യങ്ങളിൽ ഗവേഷണം നടത്തുന്നു തീർച്ചയായും ജീവശാസ്ത്ര തലത്തിൽ തലച്ചോറിനെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം 19 ആം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ആരംഭിച്ചതാകാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മസ്തിഷ്ക ശസ്ത്രക്രിയ പോലും നടത്തിയതിന്റെ രേഖകൾ നമുക്കുണ്ട് എന്നാൽ ചില അറിവുകളുണ്ടെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ലകാരണം അത് നമുക്ക് അത്ര എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനാകില്ല മസ്തിഷ്ക ഗവേഷണത്തിൽ നിന്നുള്ള ചില കണ്ടെത്തലുകൾ ഇൻപുട്ടുകൾ അടിസ്ഥാനമാക്കി മനുഷ്യ മസ്തിഷ്കം തുടർച്ചയായി സ്വയം പുനക്രമീകരിക്കുന്നു ഈ പ്രക്രിയയെ ന്യൂറോപ്ലാസ്റ്റിറ്റി എന്ന് വിളിക്കുന്നു ഇത് ഒരാളുടെ ജീവിതത്തിലുടനീളം തുടരുന്നു തലച്ചോറിന്റെ കമ്പ്യൂട്ടർ മോഡലുകൾ ഉണ്ട് അതിനർത്ഥം ആളുകൾ തലച്ചോറിനെ ഒരു കമ്പ്യൂട്ടറായി കണക്കാക്കുന്നു നമുക്ക് ലഭിക്കുന്ന സെൻസറി ഇൻപുട്ട് എന്തുതന്നെയായാലും കമ്പ്യൂട്ടർ അത് പ്രോസസ്സ് ചെയ്യുകയും ഔട്ട്പുട്ട് നൽകുകയും ചെയ്യുന്നു അത് ചില പ്രവർത്തനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യപ്പെടാം പക്ഷേ ഇവിടെ കമ്പ്യൂട്ടർ തന്നെ ഇൻപുട്ടുകൾ അടിസ്ഥാനമാക്കി സ്വയം പുനസംഘടിപ്പിക്കുന്നു പുതിയ ഇൻപുട്ടുകൾ വരുമ്പോൾ പുതിയ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നു മസ്തിഷ്കം സ്വയം പുനസംഘടിപ്പിക്കുന്നു വളരെയധികം സങ്കീർണ്ണത ഉണ്ടായിരുന്നിട്ടും തലച്ചോറിന് മൾട്ടി ടാസ്ക് ചെയ്യാൻ കഴിയില്ല ഇതിന് ഒരേസമയം രണ്ട് വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല പല യുവാക്കൾക്കും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്ന ഒന്നാണ് ഒരു വൈജ്ഞാനിക ചുമതലയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുക എന്നത് എന്നാൽ ഒരേ സമയം രണ്ട് ജോലികൾ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ മസ്തിഷ്കം രൂപകൽപ്പന ചെയ്തിട്ടില്ല എന്താണ് സംഭവിക്കുന്നത് നമ്മൾ രണ്ട് ജോലികൾക്കിടയിൽ തുടർച്ചയായി മാറുകയാണ് അതായത് നമ്മൾ ചെയ്യുന്ന ജോലി നിർത്തി മറ്റൊന്നിനെ അഭിസംബോധന ചെയ്യുക അത് നിർത്തി മുമ്പത്തേതിനെ അഭിസംബോധന ചെയ്യുക അവസാനം അത് വളരെ കാര്യക്ഷമമല്ലെന്ന് മാറുന്നു അതിനാൽ ഒരാൾ ഒരേ സമയം ഒന്നിലധികം വൈജ്ഞാനിക ജോലികൾ ചെയ്യാൻ പാടില്ല വികാരങ്ങൾ പഠനം മെമ്മറി തിരിച്ചുവിളിക്കൽ എന്നിവയെ ബാധിക്കുന്നു ഏത് വികാരവും പഠനത്തെയും മെമ്മറിയെയും ഓർമയേയും ബാധിക്കും അതിനാൽഉയർന്ന സാങ്കേതിക വിഷയം പഠിക്കുമ്പോൾ ഒരാൾക്ക് വൈകാരിക വശം ഉണ്ടാകരുത് എല്ലാം നിഷ്പക്ഷമായിരിക്കണം എന്ന് നമുക്ക് കരുതാനാവില്ല അത് തലച്ചോറിൽ സംഭവിക്കാത്ത ഒന്നാണ് അധ്യാപകനും വിദ്യാർത്ഥികളും വികാരങ്ങൾ പഠനത്തിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ചലനവും വ്യായാമവും ഒരു വ്യക്തി എല്ലാ ദിവസവും വ്യായാമം ചെയ്യുകയാണെങ്കിൽ അത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ബ്രെയിൻ മാസ്സ് വർദ്ധിപ്പിക്കുകയും കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ തുടർച്ചയായ വ്യായാമങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പതിവായി വ്യായാമം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ വൈജ്ഞാനിക പ്രോസസ്സിംഗ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ദിവസത്തിലെ ചില സമയങ്ങളിൽ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഒരു ദിവസത്തിൽ സർക്കാഡിയൻ ചക്രങ്ങളുണ്ട് ചില പ്രത്യേക സമയങ്ങളിൽ നിങ്ങളുടെ ജോലിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്ന നിർദ്ദിഷ്ട കാലയളവുകളുണ്ട് ഉറക്കക്കുറവും സമ്മർദ്ദവും പഠനത്തെയും മെമ്മറിയെയും ബാധിക്കും ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അധികം പഠിക്കാൻ പോകുന്നില്ല ഇന്റലിജൻസ് സർഗ്ഗാത്മകത എന്നിവ തിരിച്ചറിയേണ്ട രണ്ട് വ്യത്യസ്ത കഴിവുകളാണ് വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തി സർഗ്ഗാത്മകനാകണമെന്നില്ല വളരെ സർഗ്ഗാത്മകനായ വ്യക്തി അത്രയധികം ബുദ്ധിമാനായിരിക്കണമെന്നില്ല പക്ഷേ ഇത് രണ്ടും സ്കൂൾ വിദ്യാഭ്യാസത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറാം അതിനർത്ഥം അവ എക്സ്ക്ലൂസീവ് അല്ല അവ രണ്ട് വ്യത്യസ്ത കഴിവുകളാണ് ഒരാൾക്ക് സ്വയം വേണമെങ്കിൽ ഇന്റലിജൻസ് ദിശയിലും സൃഷ്ടിപരമായ ദിശയിലും കഴിവുകൾ വളർത്തിയെടുക്കാൻ കഴിയും സാമൂഹികവും സാംസ്കാരികവുമായ അവസ്ഥ അധ്യാപനത്തെയും പഠനത്തെയും ബാധിക്കുന്നു മസ്തിഷ്കത്തിന് ഇതിനോട് വളരെയധികം ബന്ധമുണ്ട് ഏറ്റവും പ്രധാനമായി കലകൾ തലച്ചോറിനെ വികസിപ്പിക്കാൻ സഹായിക്കും നമ്മൾ ഈ കാര്യം കൂടുതൽ വിശദീകരിക്കില്ല തലച്ചോറിനെക്കുറിച്ചോ അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അതിന്റെ ഘടനയെക്കുറിച്ചോ മനസ്സിലാക്കുന്നത് അധ്യാപകനെ സഹായിക്കുമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് കുറച്ച് അറിവുകൾ അവതരിപ്പിക്കുന്നു അത്രമാത്രം വിഷയത്തെ വിദ്യാഭ്യാസ ന്യൂറോ സയൻസ് എന്നും "മനസ്സ് മസ്തിഷ്കം വിദ്യാഭ്യാസം" എന്നും വിളിക്കുന്നു അല്ലെങ്കിൽ "മസ്തിഷ്കം മനസ്സ് വിദ്യാഭ്യാസം" എന്നും ക്രമം മാറ്റി പറയാം ഈ അന്വേഷണ മേഖല പരിശോധിക്കുന്നത് അധ്യാപകർ ഓരോ ദിവസവും എടുക്കുന്ന പാഠ്യ നിർദ്ദേശ വിലയിരുത്തൽ തീരുമാനങ്ങളെ മനുഷ്യ മസ്തിഷ്കം എങ്ങനെ ബാധിക്കുമെന്നാണ് തലച്ചോറിനെ കുറച്ചുകൂടി മനസിലാക്കുന്നത് അധ്യാപകരെ പാഠ്യപദ്ധതി മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്യാൻ സഹായിക്കുന്നത് എങ്ങനെയെന്ന് ഇനിപ്പറയുന്ന യൂണിറ്റിൽ കാണാം ഈ സവിശേഷതകളിൽ ചിലത് നമ്മൾ പരിശോധിക്കും പക്ഷേ ഈ വിദ്യാഭ്യാസ ന്യൂറോ സയൻസിനെക്കുറിച്ചുള്ള അറിവ് നിസ്സംശയമായും അദ്ധ്യാപനവും പഠന പ്രക്രിയയും മികച്ചതാക്കാൻ ഇടയാക്കില്ല കാരണം തലച്ചോറിലെ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മൾ വളരെ അകലെയാണ് നമ്മൾ അദ്ധ്യാപന പഠന പ്രക്രിയകൾ മികച്ചതാക്കും കുറഞ്ഞത് സമീപഭാവിയിലല്ല പക്ഷേ നമുക്കുള്ള ഏതൊരു അറിവും ഉപയോഗിച്ച് നമുക്ക് അത് മികച്ചതാക്കാൻ കഴിയും തലച്ചോറിനെക്കുറിച്ചുള്ള ചില അടിസ്ഥാന വസ്തുതകൾ മനുഷ്യ മസ്തിഷ്കം നനഞ്ഞ ദുർബലമായ ഒന്നാണ് അതിന്റെ ഭാരം 1 5 കിലോഗ്രാം അല്ലെങ്കിൽ അതിൽ അൽപ്പം കുറവാണ് ഇത് ശരീരഭാരത്തിന്റെ 2 മാത്രമേ പ്രതിനിധീകരിക്കുന്നുള്ളൂ പക്ഷേ ഇത് നമ്മുടെ കലോറിയുടെ 20 ഉപയോഗിക്കുന്നു അതായത് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ശരീരഭാരത്തിന്റെ ഈ 2 പ്രവർത്തിക്കാൻ വളരെയധികം ഊർജ്ജം ആവശ്യമാണ് തലച്ചോറിനെ പല തരത്തിൽ വിവരിക്കാം പരിണാമത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾക്കനുസൃതമായി ഒരു വർഗ്ഗീകരണം നമുക്ക് ഒരു റെപ്റ്റിലിയൻ തലച്ചോറുണ്ട് ഇതാണ് നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കുന്നത് ലിംബിക് ഏരിയയായ പാലിയോ മാമാലിയൻ മസ്തിഷ്കം ഫ്രന്റൽ ലോബുകളായ മാമാലിയൻ എന്നിവ ആണത് നമ്മൾ അവയെ വിപരീത ക്രമത്തിൽ നോക്കും സെറിബ്രം നിങ്ങൾക്ക് ഈ പിങ്ക് നിറത്തിൽ കാണാൻ കഴിയുന്നതു സെറിബ്രം ആണ് സൈഡ് കാഴ്ചയിൽ ഇത് ഇങ്ങനെയായിരിക്കും ഒരു സൾക്കസ് ഉണ്ട് തലച്ചോറിന്റെ മധ്യത്തിൽ ഒരു കുഴി പോലെ ഉള്ളതുകൊണ്ട് അത് രണ്ട് വ്യത്യസ്ത അർദ്ധഗോളങ്ങൾ പോലെ കാണപ്പെടുന്നു മുകളിൽ നിന്ന് നോക്കിയാൽ ശരിക്കും സമാനമായ രണ്ട് അർദ്ധഗോളങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഈ സെറിബ്രത്തിൽ ലോബുകളുണ്ട് ഫ്രന്റൽ ലോബ് ടെമ്പറൽ ലോബ് പരിയേറ്റൽ ലോബ് ഒസിപിറ്റൽ ലോബ് മറ്റ് ഭാഗങ്ങൾ സെറിബെല്ലം അല്ലെങ്കിൽ ചെറിയ മസ്തിഷ്കം അതിനെ വിളിക്കുന്നത് പോലെ മോട്ടോർ കോർട്ടെക്സ് സോമാറ്റോസെൻസറി കോർട്ടെക്സ് ലിംബിക് ഏരിയ അല്ലെങ്കിൽ മധ്യ മസ്തിഷ്കം എന്നിവയാണ് ചുവടെ ബ്രെയിൻ സ്സ്റ്റം തലച്ചോറിന്റെ 80 ഭാരം സെറിബ്രത്തിനാണ് മുന്നിൽ നിന്ന് പിന്നിലേക്ക് വരെയുള്ള ഒരു ആഴം കുറഞ്ഞ വിള്ളൽ സെറിബ്രത്തെ രണ്ട് സെറിബ്രൽ അർദ്ധഗോളങ്ങളായി വിഭജിക്കുകയും ചെയ്യുന്നു അവ അവയുടെ പ്രവർത്തനങ്ങളിൽ സമാനമല്ല എന്നാൽ സമാനമായ നിരവധി പ്രവർത്തനങ്ങൾ ഉണ്ട് രണ്ട് അർദ്ധഗോളങ്ങളും പരസ്പരം ആശയവിനിമയം നടത്തുകയും കോർപ്പസ് കാലോസം എന്ന പാലം ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു രണ്ട് അർദ്ധഗോളങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ 200 ദശലക്ഷത്തിലധികം നാഡികൾ അടങ്ങിയിരിക്കുന്നു അർദ്ധഗോളങ്ങൾ കോർട്ടെക്സ് ഇംഗ്ലീഷ് വിവർത്തനം ഒരു മരത്തിന്റെ പുറംതൊലി കൊണ്ട് മൂടിയിരിക്കുന്നു ഇത് ഒരു പുറംതൊലി പോലെയാണ് കോർടെക്സ് അതിന്റെ മുകളിലെ പാളി മാത്രമാണ്അതിന്റെ കനം ഒരു ഇഞ്ചിന്റെ പത്തിലൊന്ന് വരും ആറ് പാളികളായി ക്രമീകരിച്ചിരിക്കുന്ന കോർടെക്സ് കോശങ്ങളാൽ സമ്പന്നമാണ് ഇതിനെ തലച്ചോറിന്റെ ചാരനിറം എന്ന് വിളിക്കുന്നു ഇതിന്റെ ഇടതുഭാഗത്ത് നിന്ന് ഞരമ്പുകൾ വലത് അർദ്ധഗോളത്തിലേക്ക് കടന്നുപോകുന്നു വലതുഭാഗത്ത് നിന്ന് ഇടത് അർദ്ധഗോളത്തിലേക്ക് കടന്നുപോകുന്നു എന്നതാണ് ശ്രദ്ധേയം എന്തുകൊണ്ടാണ് അത് അങ്ങനെ പരിണമിച്ചതെന്നും അതിന്റെ ഉദ്ദേശ്യമെന്താണെന്നും ഇപ്പോഴും പൂർണ്ണമായും അറിവായിട്ടില്ല ഭാഷ ചിന്തിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും എഴുതാനും മനസ്സിലാക്കുന്നതിനും സെറിബ്രം ഉത്തരവാദിയാണ് എല്ലാ ചിന്താ പ്രക്രിയകളും സെറിബ്രത്തിൽ നടക്കുന്നു സെറിബ്രൽ കോർടെക്സ് മുകളിലെ പാളിയിൽ നാലു ലോബുകളുണ്ട് ഫ്രന്റൽ ലോബ് ടെമ്പറൽ ലോബ് ഒസിപിറ്റൽ ലോബ് പരിയേറ്റൽ ലോബ് ഫ്രണ്ടൽ ലോബ് നെറ്റിക്ക് പിന്നിൽ കിടക്കുന്ന ഭാഗത്തെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു ഇത് എക്സിക്യൂട്ടീവ് കൺട്രോൾ സെന്റർ എന്നും അറിയപ്പെടുന്നു ഇത് ആസൂത്രണവും ചിന്തയും കൈകാര്യം ചെയ്യുന്നു മറ്റ് സസ്തനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യന്റെ ഒരു പ്രത്യേക കഴിവാണിത് ഇത് ഉയർന്ന നിലവാരത്തിലുള്ള ചിന്തയെ നിരീക്ഷിക്കുകയും പ്രശ്ന പരിഹാരത്തിലേക്ക് നയിക്കുകയും വൈകാരിക വ്യവസ്ഥയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു വൈകാരിക സംവിധാനം ശക്തമാകാം അത് നിയന്ത്രിക്കേണ്ടതുണ്ട് ഇതിൽ നമ്മുടെ വ്യക്തിത്വം എന്ന് വിളിക്കപ്പെടുന്ന ഇച്ഛാശക്തിയും അടങ്ങിയിരിക്കുന്നു പ്രവർത്തിക്കുന്ന മെമ്മറിയുടെ ഭൂരിഭാഗവും സ്ഥിതിചെയ്യുന്നതിനാൽ ഫോക്കസ് സംഭവിക്കുന്ന മേഖല കൂടിയാണിത് പിന്നീടുള്ള യൂണിറ്റിൽ വർക്കിംഗ് മെമ്മറി നമ്മൾ നോക്കും കാരണം മെമ്മറിയിൽ വർക്കിംഗ് മെമ്മറിയും ദീർഘകാല മെമ്മറിയും അടങ്ങിയിരിക്കുന്നു രസകരമായ കാര്യം നിങ്ങൾ ഫ്രണ്ടൽ ലോബും മിഡ്ബ്രെയിനും അല്ലെങ്കിൽ അതിന്റെ വൈകാരിക ഭാഗവും നോക്കുകയാണെങ്കിൽ ഫ്രണ്ടൽ ലോബിന്റെ വികസനവും ലിംബിക് ഏരിയ അല്ലെങ്കിൽ വികാരങ്ങൾ സ്ഥിതിചെയ്യുന്ന സ്ഥലത്തിന്റെ വികസനവും തമ്മിൽ 10 മുതൽ 12 വർഷം വരെ ഇടവേള ഉണ്ടെന്ന് മനസിലാക്കാം നിങ്ങൾ ഈ ചാർട്ട് നോക്കിയാൽ വികാരങ്ങൾ നിയന്ത്രിക്കുന്ന ലിംബിക് ഏരിയ ഇത് 12 വയസ്സിനകം പക്വത പ്രാപിക്കുന്നു അത് ശക്തമാണ് പക്ഷേ ഫ്രണ്ടൽ ലോബുകൾ വികസിക്കാൻ കൂടുതൽ സമയമെടുക്കും മിക്കവാറും 24 വയസ്സ് വരെ ഇരുവരും തമ്മിലുള്ള അന്തരം പ്രത്യേകിച്ചും 12 വയസ്സുള്ളപ്പോൾ വളരെ വലുതാണ് ഇവിടെയാണ് വികാരം കാരണങ്ങളെ കീഴ്പ്പെടുത്തുന്നത് വികാരങ്ങൾ കീഴ്പ്പെടുന്ന കൌമാര കാലഘട്ടമാണിത് മറ്റ് മൂന്ന് ലോബുകൾ ടെമ്പറൽ ഒസിപിറ്റൽ പരിയേറ്റൽ ലോബുകൾ ടെമ്പറൽ ലോബുകൾ ചെവിക്കു പിന്നിലായി സ്ഥിതിചെയ്യുന്നു ശബ്ദം സംഗീതം മുഖം ഒബ്ജക്റ്റ് തിരിച്ചറിയൽ ചില ഭാഗങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നു ലോബ്സ് സെറിബ്രത്തിന്റെ പിൻഭാഗത്താണ് സ്ഥിതിചെയ്യുന്നത് വിഷ്വൽ പ്രോസസ്സിംഗിനായി പ്രത്യേകമായി ഉപയോഗിക്കുന്നു അവിടെ എല്ലാ വിഷ്വൽ പ്രോസസ്സിംഗും നടക്കുന്നു മുകളിൽ സ്ഥിതിചെയ്യുന്ന പരിയേറ്റൽ ലോബുകൾ പ്രധാനമായും സ്പേഷ്യൽ ഓറിയന്റേഷൻ കണക്കുകൂട്ടൽ ചില തരം തിരിച്ചറിയൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ലോബുകൾക്ക് പുറമേ നമുക്ക് മോട്ടോർ കോർട്ടെക്സും സോമാറ്റോസെൻസറി കോർട്ടെക്സും ഉണ്ട് പാരീറ്റൽ ലോബ് ഫ്രന്റൽ ലോബുകളായതും രണ്ട് ബാൻഡുകളായി കാണപ്പെടുന്നതും ഇവിടെയാണ് ഒന്നിനെ മോട്ടോർ കോർട്ടെക്സ് എന്നും മറ്റൊന്ന് സോമാറ്റോസെൻസറി കോർട്ടെക്സ് എന്നും വിളിക്കുന്നു ഫ്രണ്ടൽ ലോബിനടുത്തുള്ള ചെവി മുതൽ ചെവി വരെയുള്ള ബാൻഡ് മോട്ടോർ കോർട്ടെക്സാണ് ഈ സ്ട്രിപ്പ് ശരീരത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുകയും സെറിബെല്ലവുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇത് മോട്ടോർ കഴിവുകൾ പഠിക്കുന്നതിനെ ഏകോപിപ്പിക്കുന്ന ചെറിയ തലച്ചോറാണ് നിങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഏത് തരത്തിലുള്ള നൈപുണ്യത്തിനും സെറിബെല്ലവും മോട്ടോർ കോർട്ടെക്സും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിവരും അവിടെയാണ് പാണ്ഡിത്യം നടക്കുന്നത് സോമാറ്റോസെൻസറി കോർട്ടെക്സ് മോട്ടോർ കോർട്ടക്സിന് പിന്നിലും പരിയേറ്റൽ ലോബിനടുത്തും സ്ഥിതിചെയ്യുന്നു കൂടാതെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച സ്പർശന സിഗ്നലുകൾ പ്രോസസ്സ് ചെയ്യുന്നു കൺട്രോളർ സെറിബെല്ലം എന്താണ് ചെയ്യുന്നത് സെറിബെല്ലത്തിനെ ആലങ്കാരികമായി ചെറിയ തലച്ചോർ എന്ന് പറയാം സെറിബ്രെല്ലം രണ്ട് ഭാഗങ്ങളുള്ള ഒരു ഘടനയാണ് സെറിബെല്ലം സെറിബ്രത്തിന്റെ പുറകിൽ ബ്രെയിൻ സ്റ്റമിന്റെ തൊട്ടു താഴെ ആണുള്ളത് ഇത് ചലനത്തെ ഏകോപിപ്പിക്കുകയും സങ്കീർണ്ണമായ മോട്ടോർ ജോലികളുടെ പ്രകടനത്തിനും സമയത്തെയും ബാധിക്കുന്നു ഇതിന് യാന്ത്രിക ചലനത്തിന്റെ മെമ്മറിയും സംഭരിക്കാം ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന നിരവധി ചലനങ്ങൾ ഉണ്ട് നിങ്ങൾ ഒരു സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതിനുശേഷം നിങ്ങൾ ആ യാന്ത്രിക ചലനത്തിന്റെ മെമ്മറി നമ്മൾസൂക്ഷിക്കുന്നു കോർട്ടക്സിന്റെ ഒരു ഭാഗവും വരാതെ പോലും സെറിബെല്ലത്തിൽ സൂക്ഷിക്കുന്നു അത്തരം ഓട്ടോമേഷൻ ഉപയോഗിച്ച് പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിയും മോട്ടോർ ജോലികളുടെ മാനസിക റിഹേഴ്സലിൽ ഇത് പങ്കാളിയാണെന്നും അറിയപ്പെടുന്നു അതായത് നിങ്ങൾ കാണുമ്പോൾ തന്നെ ആ ഒരു മോട്ടോർ പ്രവർത്തനം നിങ്ങൾ മാനസികമായി പരിശീലിക്കുന്നു മോട്ടോർ ചലനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇത് വളരെ മൂല്യവത്താണ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ ഇന്ദ്രിയങ്ങൾ ഓർമ്മകൾ എന്നിവ നന്നായി ട്യൂൺ ചെയ്യുന്നതിലൂടെ ഇത് വൈജ്ഞാനിക പ്രോസസ്സിംഗിന്റെ ഒരു പിന്തുണാ ഘടനയായി പ്രവർത്തിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു ഇത് വൈജ്ഞാനിക പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വളരെയധികം വർദ്ധിപ്പിക്കുന്നു പ്രായോഗികമായി നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ തലച്ചോറിന്റെ ഓരോ ഭാഗവും എങ്ങനെയെങ്കിലും പാരീറ്റൽ ലോബിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു മധ്യ മസ്തിഷ്കം അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റം ഇതിൽ പ്രധാനമായും തലാമസ് അടങ്ങിയിരിക്കുന്നു കാണിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ഇളം നീല കലർന്ന പച്ച ഭാഗം തലാമസ് ആണ് ചാരനിറത്തിലോ നീലകലർന്ന ചാരനിറത്തിലോ ഉള്ള കോർപ്പസ് കാലോസം സൂചിപ്പിക്കുന്നത് രണ്ട് അർദ്ധഗോളങ്ങളിൽ നിന്ന് ബന്ധിപ്പിക്കുന്ന ഞരമ്പുകളുടെ കൂട്ടമാണ് ലിംബിക് സിസ്റ്റത്തിലേക്ക് നോക്കുമ്പോൾ അതിന്റെ നാല് പ്രധാന ഭാഗങ്ങളായ തലാമസ് ഹൈപ്പോതലാമസ് അമിഗ്ഡാല ഹിപ്പോകാമ്പസ് എന്നിവ കാണാം തീർച്ചയായും പ്രത്യേക പേരുകളുള്ള മറ്റ് നിരവധി ഭാഗങ്ങളുണ്ട് അവരുടെ റോളുകൾ വ്യത്യസ്തമാണ് നമ്മൾ അതൊന്നും വിശദീകരിക്കുന്നില്ല ബ്രെയിൻ സ്റെമ്മിനും സെറിബ്രത്തിനും ഇടയിലാണ് ലിംബിക് സിസ്റ്റം സ്ഥിതിചെയ്യുന്നത് ഈ ലിംബിക് സിസ്റ്റത്തിന്റെ ഘടനകൾ ഓരോ അർദ്ധഗോളത്തിലും തനിപ്പകർപ്പാണ് ഇത് വികാരങ്ങൾ സൃഷ്ടിക്കുകയും വൈകാരിക ഓർമ്മകൾ പ്രോസസ്സ് ചെയ്യുകയും വികാരവും യുക്തിയും തമ്മിലുള്ള ഇടപെടൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള മിക്ക സിഗ്നലുകളും ഈ ലിംബിക് സംവിധാനത്തിലൂടെ കടന്നുപോകേണ്ടിവരും അതുകാരണം വികാരങ്ങൾ വൈജ്ഞാനിക പ്രക്രിയയെയും വളരെയധികം സ്വാധീനിക്കും തലാമസ് ഹൈപ്പോതലാമസ് ഹിപ്പോകാമ്പസ് അമിഗ്ഡാല എന്നിവയാണ് ലിംബിക് സിസ്റ്റത്തിന്റെ നാല് പ്രധാന ഭാഗങ്ങൾ അധിക പ്രോസസ്സിംഗിനായി തലച്ചോറിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് അത് നയിക്കപ്പെടുന്നു സെറിബ്രം സെറിബെല്ലം എന്നിവ തലാമസിലേക്ക് സിഗ്നലുകൾ അയയ്ക്കുന്നു മെമ്മറി ഉൾപ്പെടെ നിരവധി വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ അത് പങ്കെടുക്കുന്നു തലാമസിന് തൊട്ടുതാഴെയാണ് ഹൈപ്പോഥലാമസ് സ്ഥിതിചെയ്യുന്നത് ശരീരത്തിന്റെ സാധാരണ അവസ്ഥ നിലനിർത്തുന്നതിന് ഹൈപ്പോതലാമസ് ആന്തരിക സംവിധാനങ്ങളെ നിരീക്ഷിക്കുന്നു ശരീര താപനില ഹൃദയമിടിപ്പിന്റെ പ്രവർത്തനംഎന്നിങ്ങനെ ബോധപൂർവ്വം നിയന്ത്രിക്കപ്പെടാത്ത നിരവധി ശരീര പ്രവർത്തനങ്ങൾ ഉണ്ട് അവയെല്ലാം ഹൈപ്പോഥലാമസ് നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഹോമിയോസ്റ്റാസിസ് അവ നിലനിർത്തേണ്ട നിർദ്ദിഷ്ട മൂല്യങ്ങൾ നിലനിർത്തുന്നു എങ്ങനെ ആണ് നിയന്ത്രണം പലതരം ഹോർമോണുകൾ പുറത്തുവിടുന്നതിലൂടെ ഇത് പ്രധാനമായും നിയന്ത്രിക്കുന്നു പുറത്തുവിടുന്ന ഹോർമോണുകളുടെ അളവ് അനുസരിച്ച് ഉറക്കം ശരീര താപനില ഭക്ഷണം കഴിക്കൽ വെള്ളം കുടിക്കൽ എന്നിവയുൾപ്പെടെയുള്ള ശരീര പ്രവർത്തനങ്ങളെ ഇത് മോഡറേറ്റ് ചെയ്യുന്നു നാഡീവ്യവസ്ഥയും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹോർമോണുകൾ രാസവസ്തുക്കളിലൂടെ പുറത്തുവിടുന്നതിലൂടെ ആണ് അതിന്റെ പ്രധാന നിയന്ത്രണം ഹിപ്പോകാമ്പസ് ഹിപ്പോകാമ്പസ് എന്ന വാക്കിന്റെ അർഥം കടൽകുതിരയാണ് ലിംബിക് ഏരിയയുടെ അടിയിൽ സ്ഥിതിചെയ്യുന്ന ഇത് പ്രവർത്തന മെമ്മറിയിൽ നിന്ന് ദീർഘകാല സംഭരണ മേഖലയിലേക്ക് വിവരങ്ങൾ പരിവർത്തനം ചെയ്യുന്നു ഇതിന് ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ എടുത്തേക്കാം നമ്മുടെ പ്രവർത്തിക്കുന്ന മെമ്മറി എന്തുതന്നെയായാലും താൽക്കാലിക സംഭരണം യാന്ത്രികമായി ദീർഘകാല സംഭരണ മേഖലയിലേക്ക് പോകില്ല അവിടെയാണ് നമ്മുടെ അദ്ധ്യാപനം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പരിശീലനം ചിത്രത്തിലേക്ക് വരുന്നത് അതായതു പ്രവർത്തന മെമ്മറിയിൽ നിന്ന് ദീർഘകാല സംഭരണവിവരങ്ങൾ കൈമാറുന്ന രീതികൾ ചിത്രത്തിലേക്ക് വരും ഇത് പ്രവർത്തന മെമ്മറിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിരന്തരം പരിശോധിക്കുകയും സംഭരിച്ച അനുഭവങ്ങളുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു പഠനത്തിലും മെമ്മറിയിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ന്യൂറോജെനിസിസിന്റെ കഴിവുണ്ട് ഇതിന് ഈ ന്യൂറോജെനിസിസ് ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ശക്തിപ്പെടുത്തുകയും ഉറക്കക്കുറവ് മൂലം ദുർബലപ്പെടുത്തുകയും ചെയ്യും ഹിപ്പോകാമ്പസ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ അധ്യാപനത്തിലും പഠനത്തിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അമിഗ്ഡാല വാക്കിന്റെ അർഥം ബദാം ആണ് കാരണം ബദാം പോലെ തോന്നുന്നു ഹിപ്പോകാമ്പസിന്റെ അറ്റത്ത് അമിഗ്ഡാല ഘടിപ്പിച്ചിരിക്കുന്നു വികാരങ്ങളിൽ പ്രത്യേകിച്ച് ഭയത്തിന് ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇത് സാഹചര്യങ്ങളോടുള്ള വ്യക്തിയുടെ ഇടപെടലുകളെ നിയന്ത്രിക്കുകയും ആക്രമണം രക്ഷപ്പെടൽ ഇണചേരൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക തുടങ്ങിയ അതിജീവന മാർഗങ്ങളെ ബാധിക്കുകയും ചെയ്യും തലച്ചോറിന്റെ ഇക്കോളജിക്കൽ ഭാഗം വിവിധ ലോബുകളാൽ പ്രോസസ്സ് ചെയ്യുന്ന സിഗ്നലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സാഹചര്യം കൊണ്ടുണ്ടാകുന്ന ബാഹ്യ സിഗ്നലുകളോട് പ്രതികരിക്കുന്നതിന് ഇത് എടുക്കുന്ന സമയം വളരെ വേഗതയുള്ളതാണ് ഇത് ഒരുപക്ഷേപരിണാമത്തിലൂടെ മനുഷ്യരെ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തതോ പരിണമിച്ചതോ ആണ് ആ അർത്ഥത്തിൽ പരിസ്ഥിതിയിൽ എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ആക്രമിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യേണ്ടതുണ്ട് അതിനാൽ പ്രതികരണങ്ങൾ ശക്തമായിരിക്കും ഒരു അമിഗ്ഡാല ഉണ്ടെങ്കിൽ ഒരു വൈകാരിക സന്ദേശം എൻകോഡുചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മെമ്മറി ദീർഘകാല മെമ്മറിയിലേക്ക് പോകുമ്പോൾ ഈ വികാരവുമായി ടാഗുചെയ്യുന്നു ദീർഘകാല മെമ്മറിയിലുള്ള എന്തും ഒരു വൈകാരിക സന്ദേശം ഉപയോഗിച്ച് ടാഗുചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത്പെട്ടെന്ന്ഓർമ്മിക്കാൻ കഴിയും അത് ടാഗുചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഇപ്പോഴും ഓർമിക്കാൻ കഴിയും പക്ഷേ അത് ഫലപ്രദമായിരിക്കില്ല മെമ്മറിയുടെ വൈകാരിക ഘടകം അമിഗ്ഡാലയിൽ സൂക്ഷിക്കാൻ സാധ്യതയുണ്ട് അതേസമയം മറ്റ് വൈജ്ഞാനിക ഘടകങ്ങൾ മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കുന്നു ഇത് അടുത്ത യൂണിറ്റിൽ നമ്മൾ കാണും അതേ സന്ദേശം അല്ലെങ്കിൽ അതേ ചിത്രം അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഒരു സംഭവം എല്ലാം തലച്ചോറിൽ ഒരിടത്ത് സൂക്ഷിക്കുന്നില്ല അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂക്ഷിക്കുന്നു എങ്ങനെയൊക്കെയോ അവ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായാൽ മുഴുവൻ സംഭവങ്ങളും മാനസികമായി പുനർനിർമ്മിക്കപ്പെടുന്നു പക്ഷേ സംഭവത്തിന്റെ വിവിധ ഭാഗങ്ങൾ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂക്ഷിക്കുന്നു തലച്ചോറിലെ രണ്ട് ഘടനകൾ പ്രധാനമായും ദീർഘകാല ഓർമ്മപ്പെടുത്തലിന് കാരണമാകുന്നത് തലച്ചോറിന്റെ വൈകാരിക മേഖലയിലാണ് അമിഗ്ഡാലയും ഹിപ്പോകാമ്പസും ദീർഘകാല മെമ്മറിക്ക് കാരണമാകുന്നു ബ്രെയിൻ സ്റ്റെം നമ്മൾ അതിന്റെ എല്ലാ വിശദാംശങ്ങളും നോക്കാൻ പോകുന്നില്ല ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആണ് പ്രധാന ഭാഗം അതെന്തൊക്കെ ചെയ്യും തലച്ചോറിന്റെ ഏറ്റവും പഴക്കമേറിയതും ആഴമേറിയതുമായ ഭാഗമാണ് റെപ്റ്റിലിയാൻ മസ്തിഷ്കം എന്നും അറിയപ്പെടുന്ന ബ്രെയിൻസ്റ്റം തലച്ചോറിലേക്ക് പോകുന്ന 12 ശരീര ഞരമ്പുകളിൽ 11 എണ്ണം ബ്രെയിൻസ്റെമ്മിൽ തന്നെ അവസാനിക്കുന്നു ഹൃദയമിടിപ്പ് ശ്വസനം ശരീര താപനില ദഹനം തുടങ്ങിയ സുപ്രധാന ശരീര പ്രവർത്തനങ്ങൾ ബ്രെയിൻ സ്റെമ്മിൽ തന്നെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു മസ്തിഷ്ക ജാഗ്രതയ്ക്ക് ഉത്തരവാദിയായ റെറ്റിക്യുലാർ ആക്റ്റിവേറ്റിംഗ് സിസ്റ്റവും ഇവിടെയുണ്ട് കാരണം പരിസ്ഥിതിയിൽ എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ പ്രതികരണങ്ങൾ വളരെ വേഗത്തിലാകേണ്ടതുണ്ട് കോർട്ടെക്സിൽ നിന്ന് സെറിബെല്ലം മെഡുല വരെ സിഗ്നലുകൾ കൊണ്ടുപോയി അവിടുന്ന് സെൻസറി സിഗ്നലുകൾ തലാമസിലേക്ക് കൊണ്ടുപോകുന്ന നാഡീവ്യൂഹങ്ങളെ പോൺ എന്ന് പറയുന്നു അതിനാൽ ഇത് ഒരു തരം ജംഗ്ഷനാണ് സെറിബ്രത്തിൽ നിന്ന് ഞരമ്പുകൾ മെഡുലയിലേക്കും സെറിബെല്ലത്തിലേക്കും പോയി തിരിച്ചു വരുന്ന ജംഗ്ഷൻ ആണിത് തലച്ചോറിന്റെ ഏറ്റവും നിർണായകമായ ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത് അവിടെ എല്ലാ ജോലികളും നടക്കുന്നു ബ്രെയിൻ സെല്ലുകൾ മനുഷ്യ മസ്തിഷ്കത്തിന് രണ്ട് തരത്തിലുള്ള ഒരു ട്രില്യൺ കോശങ്ങളുണ്ട് ഒരു ട്രില്യൺ സെല്ലുകൾ സങ്കൽപ്പിക്കുക അവയെ നാഡി സെല്ലുകൾ ഗ്ലിയൽ സെല്ലുകൾ എന്ന് വിളിക്കുന്നു നാഡീകോശങ്ങളെ ന്യൂറോണുകൾ എന്ന് വിളിക്കുന്നു ഏകദേശം 100 ബില്ല്യൺ ന്യൂറോണുകളുണ്ട് അതാണ് തലച്ചോറിന്റെ കാതൽ ശരിക്കും കോശങ്ങളിൽ ഭൂരിഭാഗവും ഗ്ലിയൽ സെല്ലുകളാണ് 900 ബില്ല്യൺ സെല്ലുകളുണ്ട് അവ ന്യൂറോണുകളെ ഒന്നിച്ച് ചേർത്ത് നിർത്തുകയും ന്യൂറോണുകളിൽ നിന്ന് ദോഷകരമായ വസ്തുക്കളെ അകറ്റി നിർത്തുന്നതിന് ഫിൽട്ടറുകളായി പ്രവർത്തിക്കുകയും ന്യൂറോണുകൾക്ക് ആവശ്യമായ പോഷകാഹാരം നൽകുകയും ചെയ്യുന്നു ന്യൂറോണുകൾ തലച്ചോറിന്റെ പ്രവർത്തന കേന്ദ്രമാണ് ന്യൂറോണുകൾ വ്യത്യസ്ത വലുപ്പത്തിൽ വരുന്നു കാരണം ചില ന്യൂറോണുകൾക്ക് സുഷുമ്നാ നാഡിയിൽ നിന്ന് കാലിലേക്ക് എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കാനാകും അവ വളരെ ദൈർഘ്യമേറിയതാകാം ചിലത് ഹ്രസ്വമാകാം കൂടാതെ ആകൃതികളും വലുപ്പങ്ങളും പ്രവർത്തനങ്ങളും അനുസരിച്ച് ന്യൂറോണുകളുടെ വലിയ ഒരു ശ്രേണി മുഴുവനും ഉണ്ട് പക്ഷേ ന്യൂറോണിന്റെ ശരീരം അതിന്റെ ആകെ വലുപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറുതാണ് മറ്റൊരു രസകരമായ കാര്യം ന്യൂറോണുകൾക്ക് അതിന്റെ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ഡെൻഡ്രൈറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന നിരവധി ശാഖകളുണ്ട് അത് ഒരു ന്യൂറോണിന് തന്നെ 10000 ൽ കൂടുതലാണ് ഓരോ ന്യൂറോണിനും ഒരു ആക്സൺ ഉണ്ടായിരിക്കും ഒപ്പം ഓരോ ആക്സോണിനും ചുറ്റും മെയ്ലിൻ ഷീത് എന്ന പാളി മൂടിയിരിക്കുന്നു ന്യൂറോൺ ഡയഗ്രം ന്യൂറോണിന്റെ വലുപ്പം എന്തായാലും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ചെറുതാണ് ഡെൻഡ്രൈറ്റുകൾ 10000 വരെ ആകാം ആക്സണിന് ഒരു കവചമുണ്ട് മഞ്ഞ ഭാഗം മെയ്ലിൻ കവചം ഭാഗങ്ങൾ ആയി കാണുന്നു ഇത് ഒരു ഇൻസുലേറ്റർ പോലെയാണ് ആക്സോണിനൊപ്പം അയച്ചാൽ അത് ഒരു ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷനിലേക്ക് ചാടുന്നു മെയ്ലിൻ കവചം ഉചിതമായി വളരുകയാണെങ്കിൽ ഈ പ്രേരണകളുടെ ഒഴുക്ക് വേഗത്തിലാക്കുന്നു ന്യൂറോണുകളുടെ കുറച്ച് സവിശേഷതകൾ കൂടി നോക്കാം ന്യൂറോണുകളുടെ ഡെൻഡ്രൈറ്റുകൾ മറ്റ് ന്യൂറോണുകളിൽ നിന്ന് വൈദ്യുത പ്രേരണകൾ സ്വീകരിക്കുകയും അവയെ ആക്സോണിലൂടെ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു മെയ്ലിൻ കവചം മറ്റ് കോശങ്ങളിൽ നിന്ന് ആക്സൺ ഇൻസുലേറ്റ് ചെയ്യുകയും ഇംപൾസ് ട്രാൻസ്മിഷന്റെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒരു ന്യൂറോണിന് സെക്കൻഡിൽ 250 മുതൽ 2500 വരെ പ്രേരണകൾ പകരാൻ കഴിയും ന്യൂറോണുകൾക്ക് പരസ്പരം നേരിട്ട് ബന്ധമില്ല ഏകദേശം കുറച്ച് നാനോമീറ്ററുകളാൽ അവയെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു വൈദ്യുത പ്രേരണ ഡെൻഡ്രൈറ്റുകളിൽ നിന്ന് ആക്സണിലേക്ക് നേരിട്ട് അല്ല ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു കൂടാതെ ധാരാളം ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ലഭ്യമാണ് സിനാപ്സുകൾ മാറ്റുന്നതിലൂടെ പഠനം സംഭവിക്കുന്നതിനാൽ ഒരു ന്യൂറോണിന്റെ സ്വാധീനവും മാറുന്നു പഠനത്തിൽ കൂടുതൽ ഡെൻഡ്രൈറ്റുകൾ വളരുന്നതും സിനാപ്സിന്റെ സ്വഭാവം മാറ്റുന്നതും ഉൾപ്പെടുന്നു അവിടെയാണ് പഠനം സിനാപ്സും സിനാപ്റ്റിക് ജംഗ്ഷനും കാണിച്ചിരിക്കുന്ന ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഇത് ഒരു ന്യൂറോൺ ആണ് ഇവ മുഴുവൻ ഡെൻഡ്രൈറ്റുകളും ആണ് മറ്റ് ന്യൂറോണുകളുടെ ഡെൻഡ്രൈറ്റുകൾ ന്യൂറോൺ ടെർമിനലുമായി ബന്ധിപ്പിക്കുകയും സിനാപ്സുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു സിനാപ്സ് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഒന്ന് ഡെൻഡ്രൈറ്റിൽ നിന്നുള്ളതും മറ്റൊന്ന് ന്യൂറോൺ ടെർമിനലിൽ നിന്നുമാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പുറത്തിറങ്ങുന്നത് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഈ സങ്കീർണ്ണ പ്രക്രിയയെക്കുറിച്ചും അവ എങ്ങനെ ഇവിടെ റീസൈക്കിൾ ചെയ്യുന്നുവെന്നതിനെക്കുറിച്ചും നമുക്ക് വിഷമിക്കേണ്ടതില്ലന്യുറോൺ ട്രാൻസ്മിറ്റഴ്സ് ഉണ്ടായി അവർ ന്യൂറോൺ ടെർമിനലുമായി ബന്ധപ്പെടുമ്പോൾ ഒരു വൈദ്യുത സിഗ്നൽ ഉണ്ടാവുകയും അത് സഞ്ചരിക്കുകയും ചെയ്യും അങ്ങനെയാണ് സിനാപ്സും സിനാപ്റ്റിക് ജംഗ്ഷനും പ്രവർത്തിക്കുന്നത് ബ്രെയിൻ സെൽസിനു ഇന്ധനമായി ഉപയോഗത്തിനു ഗ്ലൂക്കോസ്ഓക്സിജൻ എന്നിവ ലഭ്യമാണ് അതിനു ധാരാളം ഓക്സിജൻ ഗ്ലൂക്കോസ് എന്നിവ വേണം മസ്തിഷ്ക ദൌത്യം കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാണെകിൽ അത് കൂടുതൽ ഇന്ധനം ഉപയോഗിക്കുന്നു നിങ്ങളുടെ മസ്തിഷ്കം വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന എഴുത്തു പരീക്ഷയിൽ നിങ്ങളിൽ ഭൂരിഭാഗവും അനുഭവിച്ചതുപോലെ കൂടുതൽ വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ നിന്നാണ് ഓക്സിജൻ വരുന്നത് തലച്ചോറിലൂടെ ന്യൂറോൺ സിഗ്നലുകൾ നീക്കാൻ വെള്ളം ആവശ്യമാണ് ജലത്തിന്റെ കുറഞ്ഞ സാന്ദ്രത ഈ സിഗ്നലുകളുടെ നിരക്കും കാര്യക്ഷമതയും കുറയ്ക്കുന്നു കൂടാതെ രക്തത്തിലേക്ക് ഓക്സിജൻ കാര്യക്ഷമമായി കൈമാറുന്നതിന് ശ്വാസകോശത്തിലും വെള്ളം ഒരു പങ്കു വഹിക്കുന്നു അതിനാൽ വെള്ളം ഒന്നിലധികം റോളുകൾ വഹിക്കുകയും തലച്ചോറിനെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് കണക്കിലെടുത്താൽ ശരീരഭാരത്തിന്റെ ഓരോ 10 കിലോയ്ക്കും ഒരു ദിവസം 250 മില്ലി ആണ് വെള്ളം കുടിക്കേണ്ടത് അതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും കുറഞ്ഞത് നമുക്ക് വീണ്ടും അധ്യാപകരെയും തലച്ചോറിനെയും കുറിച്ച് സംസാരിക്കാം തലച്ചോറ് മാറ്റുക എന്നതാണ് അധ്യാപകന്റെ ജോലി അദ്ധ്യാപനം പഠനം എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നതിനുപകരം തലച്ചോറിനെ മാറ്റുകയാണ് അവന്റെ ജോലി എന്ന് പറയുന്നതാണ് ശരി അദ്ദേഹം എന്താണോ മാറ്റുന്നത് അതിന്റെ ഘടനയെയും പ്രവർത്തനത്തെയും കുറിച്ച് എന്തെങ്കിലും അറിയുന്നത് നല്ലതാണ് കൂടാതെ വിദ്യാഭ്യാസ ന്യൂറോ സയൻസിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും അറിയുക ഒരു തുടക്കം എന്ന നിലയിൽ നമ്മൾ ശുപാർശ ചെയ്യുന്നത് "മസ്തിഷ്കം എങ്ങനെ പഠിക്കുന്നു " എന്ന സൂസയുടെ പുസ്തകം ആണ് ഇന്റർനെറ്റിൽ ധാരാളം മെറ്റീരിയലുകൾ ഉണ്ട് നിങ്ങൾക്ക് പഠനത്തിന്റെ വശങ്ങളും അവയുടെ ബന്ധങ്ങളും തലച്ചോറിന്റെ ചില വശങ്ങളെ പഠനം എങ്ങിനെ ആശ്രയിക്കുന്നു എന്നതും വായിക്കാൻ കഴിയും ഒരുപക്ഷേ നിങ്ങൾക്ക് 500 വാക്കുകളിൽ കവിയാത്ത ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ഈ പ്രത്യേക ഇമെയിൽ ഐഡിയിൽ story com അയച്ചാൽ നന്നായിരിക്കും

അടുത്ത യൂണിറ്റിൽ നമ്മൾ തുടരും ശരീരഘടനയെക്കുറിച്ചല്ല മറിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് കരുതി വ്യത്യസ്ത പ്രവർത്തനങ്ങളെ മസ്തിഷ്ക രസതന്ത്രം അല്ലെങ്കിൽ മസ്തിഷ്ക ഘടനകൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം ഏവർക്കും നന്ദി